പെർസെപ്ഷനെ പറ്റി ഒരു പരിധിവരെ മനസ്സിലാക്കിയതിനുശേഷം നമ്മൾ ഇനി രണ്ടാമത്തെ ആശയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ആശയമാണ് ലേണിങ് നമ്മൾ ഈ കോഴ്സിൻറെ ഭാഗമായി മുന്നോട്ടു പോകുന്നത് എങ്ങനെയാണെന്നുവെച്ചാൽ നമ്മൾ ആദ്യമായി എങ്ങനെയാണ് ഈ സ്റ്റിമുലസ് സെൻസേഷൻ എന്നിവ ബാഹ്യമായ ലോകത്തുനിന്നും നമ്മളിലേക്ക് എത്തുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ അതിനു അർഥം നൽകുന്നതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ചുറ്റുമുള്ള ലോകത്തെ അറിയുന്നതെന്നുമാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയശേഷം നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് മനഃശാസ്ത്രത്തിൽ ലേണിങ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാം ലേണിങ് അടിസ്ഥാനപരമായും താരതമ്യേന സുസ്ഥിരമായ മാറ്റമാണ് സ്വഭാവത്തിലെ ആപേക്ഷികമായ മാറ്റമാണ് അത് അനുഭവത്തിൻറെ ഒരു ഉപോൽപ്പന്നമാണ് അപ്പോൾ നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അനുഭവങ്ങൾ ഒരുപരിധിവരെ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു അത് ഒരു പരിധിവരെ അളവുവരെ സ്ഥായിയായ മാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്നു അപ്പോൾ സമാനമായ അനുഭവം അടുത്ത തവണ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പെരുമാറ്റത്തെ നയിക്കുന്നത് നമ്മൾ നേരത്തെ ആർജ്ജിച്ച അറിവാണ് ഇതിനെയാണ് ലേണിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനമായും അർഥമാക്കുന്നത് ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവങ്ങളുടെ പുതുമയെ ആശ്രയിച്ച് സ്റ്റിമുലസ് വ്യത്യസ്തമായ പരിവർത്തനം നടത്താം നമ്മൾ നമ്മളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ശ്രമം നടത്താറുണ്ട് അപ്പോൾ ബാഹ്യമായ ചുറ്റുപാടുകളെ ആശ്രയിച്ച് വരാനുള്ള അനുഭവങ്ങളെ ആശ്രയിച്ച് മുഴുവനായുള്ള സങ്കലനത്തിനെ ആശ്രയിച്ചു ആപേക്ഷികമായ മാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്നു അത് നമ്മളെ പ്രതികരണം ഉളവാക്കുന്ന സന്ദർഭത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു പക്ഷേ നമ്മൾ വളരെ ചുരുങ്ങിയ സമയമാണ് വ്യക്തമായ സാഹചര്യത്തിന് ഏറ്റവും ഉചിതമായ പ്രതികരണം നിശ്ചയിക്കുവാൻ എടുക്കുന്നത് ഓർക്കുക നമ്മൾ ആവർത്തിച്ച് പറയുന്ന വസ്തുതയാണ് ബയോളജിക്കൽ ജീവിയെന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് മാത്രമായി പ്രയത്നത്തിൻറെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ആപേക്ഷികമായ സ്ഥിരതയുള്ള മാറ്റം ഒരു തുടർച്ചയുള്ള പ്രക്രിയയാണ് കൂടാതെ ഇത് സാവധാനം നടക്കുന്ന പ്രക്രിയയാണ് സാവധാനം നടക്കുന്ന പ്രക്രിയ എന്നതിൻറെ കാരണം നിങ്ങൾ കാണുന്ന പെരുമാറ്റത്തിലെ എന്തുതരം മാറ്റവും ഒറ്റരാത്രികൊണ്ട് ഉണ്ടാവുന്ന ഒന്നല്ല എന്നതാണ് അപ്പോൾ സാവധാനം നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുകയും മുൻകാല അനുഭവങ്ങൾ ഓർമിച്ച് എടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചത് അത് ഒരു രാത്രി കൊണ്ട് പഠിച്ച ഒന്നല്ല ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് വളരെ ഭംഗിയായി അത് ഓടിച്ചിരുന്നു എന്ന് സത്യത്തിൽ നമ്മളുടെ ആരുടെയും കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ആർജ്ജിച്ചത് ഇതൊരു വളരെ സാവധാനത്തിലുള്ള പ്രക്രിയയാണ് കൂടാതെ കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും സൈക്കിൾ ഓടിക്കുന്നില്ലെങ്കിൽ പോലും നാളെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് ഒരു തരത്തിൽ സ്ഥായി ആയിട്ടുള്ള മാറ്റമാണ് അപ്പോൾ നമ്മൾക്ക് ബിഹേവിയറിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ സ്റ്റിമുലസ്സിനെയാണ് നോക്കി കൊണ്ടിരിക്കുന്നത് സ്റ്റിമുലസ്സിനെ ഓർഗനിസത്തിൻറെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ പ്രതികരണം വെളിവാക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും എസ് ഓ ആർ പാരഡൈം സൈക്കോളജി എന്നതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് അതായത് സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് പാരഡൈം ഇപ്പോൾ സ്റ്റിമുലസ് എന്നത് ഏതെങ്കിലുമൊരു സംഭവം ഏതെങ്കിലുമൊരു സന്ദർഭം ഏതെങ്കിലുമൊരു വ്യവസ്ഥ ഏതെങ്കിലുമൊരു സിഗ്നൽ ഏതെങ്കിലുമൊരു സൂചന നിങ്ങളെ പ്രതികരണം നൽകാൻ ഉത്തേജിപ്പിക്കുന്നതായി ഉണ്ടാകും അതാണ് സ്റ്റിമുലസ് എന്നത് റസ്പോൺസ് എന്നുവെച്ചാൽ നിങ്ങൾ ഔട്ട്കം മനസ്സിലാക്കുമ്പോൾ അതിൻറെ അനന്തരഫലമായി നമ്മൾ കാണിക്കുന്ന പെരുമാറ്റമാണ് നമ്മളുടെ റെസ്പോൺസ് പക്ഷേ അവിടെ രണ്ടു തരത്തിലുള്ള റസ്പോൺസ്സ് ഉണ്ടാകാം ഒവേർട്ട് റെസ്പോൺസ് കവേർട്ട് റെസ്പോൺസ് എന്നിവയാണത് ഒവേർട്ട് റെസ്പോൺസ് എന്നത് വളരെ പെട്ടെന്ന് കാണുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പെട്ടെന്ന് വീക്ഷിക്കാനാവുന്ന പെരുമാറ്റമാണ് പക്ഷേ അവിടെ മറ്റൊരുതരത്തിലുള്ള അന്തർലീനമായ ചിന്ത കടന്നുപോകുന്നുണ്ടാകാം അതിനാൽ അവ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ അവയെ കവേർട്ട് ബിഹേവിയർ എന്നു വിളിക്കുന്നു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ലക്ചർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് വീക്ഷിക്കാനാവുന്ന പെരുമാറ്റം ആവുന്നു എന്നാൽ ക്യാമറക്ക് പുറകിൽ നിൽക്കുന്ന ക്യാമറാമാൻറെ മനസ്സിലൂടെ എന്താണ് കടന്നുപോകുന്നതെന്നത് കവേർട്ട് ബിഹേവിയർ ആവുന്നു അപ്പോൾ നമ്മൾ ലേണിങ്നെപ്പറ്റി നോക്കുമ്പോൾ അടിസ്ഥാനപരമായും സ്റ്റിമുലസ് റെസ്പോൺസ്സ് അസോസിയേഷൻ പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ്സ് അസോസിയേഷൻ നോക്കുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും ഓർഗാനിസത്തിന് അതിൻറെതായ പ്രാധാന്യമുണ്ട് അതേസമയം റസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് ഒവേർട്ട് കൂടാതെ കവേർട്ട് റെസ്പോൺസ് എന്നും അർത്ഥമാകുന്നു ഇപ്പോൾ ലേണിങ് എന്നതിൽ അടിസ്ഥാനപരമായും അസോസിയേഷൻസ് റിലേഷൻഷിപ്പ്സ് എന്നിവ ഉൾപ്പെടുന്നു അപ്പോൾ നമ്മൾ അസോസിയേഷൻ നടത്താൻ ശ്രമിക്കുന്നു ഈ അസോസിയേഷൻ വികസിപ്പിച്ചെടുക്കുന്നു പ്രതികരണത്തിൻറെയും സ്റ്റിമുലസിൻറെയും ഇടയിലുള്ള അസോസിയേഷൻ ആവിഷ്കരിക്കുന്നു അപ്പോൾ ഇതാണ് സ്റ്റിമുലസ് എങ്കിൽ ഇതായിരിക്കും പ്രതികരണം അതാണ് സ്റ്റിമുലസ് എങ്കിൽ അതായിരിക്കും പ്രതികരണം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയ കാലത്തെ ഓർത്തെടുക്കുകയാണ് ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ന്യൂ കമർ എന്നു വിളിക്കുന്ന ഔദ്യോഗിക വിദ്യാഭ്യാസത്തിലേക്ക് ആദ്യമായി കടക്കുന്ന കുട്ടി എന്ന നിലയിൽ നിങ്ങൾ കാണുന്നു എല്ലാവരും എഴുന്നേറ്റു നിന്ന് അധ്യാപകന് ശുഭദിനം ആശംസിക്കുന്നു എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും അധ്യാപകൻ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നത് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും നിവർന്നു നിൽക്കുകയും അധ്യാപകനെ ആശംസിക്കുകയും ചെയ്യണം ഇത് പഠിക്കുകയും അത് ഉള്ളിൽ ദൃഢമായി ഉറപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത തവണ മുതൽ അധ്യാപകൻ മുറിയിലേക്ക് എപ്പോൾ കടന്നു വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിഷ്ഠയോടുകൂടി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അധ്യാപകന് ശുഭദിനം ആശംസിക്കുകയും ചെയ്യും അതായത് സ്റ്റിമുലസിനും പ്രതികരണത്തിനും ഇടയിൽ അസോസിയേഷൻ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഈ അസോസിയേഷൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അടിസ്ഥാനപരമായും മൂന്ന് ഘടകങ്ങളാണ് ഈ അസോസിയേഷൻ രൂപപ്പെടുന്നതിനെ നിയന്ത്രിക്കുന്നത് കോണ്ടിഗ്വിറ്റി കോൺട്രാസ്റ് കൂടാതെ സിമിലാരിറ്റി ഈ മൂന്ന് ലക്ഷണങ്ങൾ മാത്രമാണുള്ളത് കോണ്ടിഗ്വിറ്റി എന്നാൽ എന്താണ് കോണ്ടിഗ്വിറ്റി അടുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു സ്റ്റിമുലസ് ഉണ്ട് നിങ്ങൾക്ക് പ്രതികരണവുമുണ്ട് എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള ടെമ്പറൽ വ്യത്യാസം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തീർച്ചയായും വളരെ പ്രസിദ്ധമായ ഈ തമാശ കേട്ടിരിക്കാം അത് ഇപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുന്നതല്ലായിരിക്കും പക്ഷേ ഒരാൾ ഈ തമാശ പറയുകയും മൃഗശാലയിലെ മറ്റെല്ലാ മൃഗങ്ങളും ആ സമയത്ത് ചിരിക്കുകയും ചെയ്തു ഒരു മൃഗം ഒരു ദിവസം കഴിഞ്ഞാണ് ചിരിക്കാൻ തുടങ്ങിയത് ഇവിടെ സ്റ്റിമുലസും പ്രതികരണവും തമ്മിൽ ഒരു ടെമ്പറൽ ഡിലെ ഉണ്ടായതായി കാണാം ഇപ്പോൾ ഒരു കാര്യവുമായി ഇത് ബന്ധപ്പെടുത്താം നിങ്ങൾ അധ്യാപകൻ ക്ലാസിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുത്തരം നൽകുകയാണ് ഇപ്പോൾ അധ്യാപകൻ നിങ്ങളെ വളരെ വിസ്മയത്തോടെ നോക്കുന്നു അധ്യാപകൻ പ്രത്യേക ചില പ്രശംസാ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ കൊടുത്ത ഉത്തരത്തിൻറെ ഔചിത്യം വെളിവാക്കുന്നു നൽകിയ ഉത്തരം ഉത്തരത്തിൻറെ കൃത്യത അധ്യാപകനിൽ നിന്നുള്ള സമ്മർദ്ദം എന്നിവയെല്ലാം തമ്മിൽ ഒരു കോണ്ടിഗ്വിറ്റി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ശരിയായ പ്രതികരണം നൽകുന്ന നിമിഷം അധ്യാപകൻ നിങ്ങൾക്ക് ഉടൻതന്നെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുന്നതായിരിക്കും നിങ്ങൾ ഉത്തരം നൽകാൻ എടുക്കുന്ന സമയ വ്യത്യാസത്തിൻറെ അടിസ്ഥാനത്തിൽ ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിന് വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല അപ്പോൾ ലേണിങ്ങ് എന്നതിൻറെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് സ്റ്റിമുലസും പ്രതികരണവും തമ്മിൽ കൂടുതൽ കോണ്ടിഗ്വിറ്റി ഉണ്ടാകുമ്പോൾ അസോസിയേഷൻ ഉയർന്നതായിരിക്കും ഇതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിക്കുന്നു കൂടാതെ ഇത് ചെയ്യേണ്ടതല്ല എന്നും അതുകൊണ്ട് സാമൂഹിക നിയമങ്ങൾ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ കോണ്ടിഗ്വിറ്റി എന്നതിന് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്കാരത്തിൽ പേരെൻറിങ്ലെ വളരെ പ്രബലമായ ഒരു രീതിയാണ് മാതാപിതാക്കൾ കുട്ടികളെ ശകാരിക്കുന്നതിന് അറച്ചു നിൽക്കാറില്ല എന്നത് മിക്ക മാതാപിതാക്കളും കുട്ടികളെ അടിക്കുന്നതിനെക്കുറിച്ച് മറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൻറെ വ്യാപ്തിയനുസരിച്ച് നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഉടൻ തന്നെ ശാസിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മോശം വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വിളിച്ചു ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യാറില്ല നിങ്ങൾ ചീത്തയായ വാക്ക് ഉപയോഗിക്കുന്ന നിമിഷം നിങ്ങളുടെ അച്ഛൻറെ അടുത്തു നിന്നും നിങ്ങൾക്ക് ശാസന ലഭിക്കുന്നു അദ്ദേഹം നിങ്ങളെ വഴക്കുപറയും ചിലപ്പോൾ അടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന സമൂഹത്തിൻറെ ഉചിതമായ പ്രവർത്തികളിൽ ഉപയോഗപ്പെടുത്തേണ്ടതല്ലാത്ത തരത്തിലുള്ള പദാവലിയിലാണ് ഇതുൾപ്പെടുന്നത് രണ്ടാമതായുള്ളത് കോൺട്രാസ്റ് ഫാക്ടറാണ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റിനെ കുറിച്ച് അറിയാവുന്നതാണ് കോൺട്രാസ്റ് എത്രത്തോളം ഉയർന്നതാണോ അത്രത്തോളം മികച്ചതായി ലേണിങ്ങ് നടക്കുന്നു ഇതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ തമ്മിൽ വേർതിരിക്കാനാവുന്നു എന്നതാണ് അപ്പോൾ അതേ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ പ്രതികരണത്തിൻറെ ഔചിത്യം എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കിൻറെ കൃത്യതയും നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും നോക്കുമ്പോൾ നിങ്ങൾ അധ്യാപകനെ ശരിയായ ഉത്തരം നൽകിയപ്പോൾ അധ്യാപകൻ നിങ്ങളെ പ്രശംസിക്കുന്നു നിങ്ങൾ മോശമായ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ശിക്ഷിക്കുന്നു ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് സന്ദർഭങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും ഇത് ചെയ്യേണ്ട കാര്യമാണോ dos എന്നു മനസിലാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ donts എന്നതും മനസ്സിലാക്കാനാകും അപ്പോൾ അതുപോലെ എന്താണ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ നിർദേശിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എന്താണ് നിഷിദ്ധമായ കാര്യങ്ങൾ എന്നും നിങ്ങൾക്ക് സ്വതവേ തന്നെ മനസ്സിലാകുന്നതാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ dos നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ don'ts നിർദ്ദേശിക്കപ്പെട്ടതും നിഷിദ്ധമായതും എന്നിങ്ങനെയുള്ള അസോസിയേഷൻ കോൺട്രാസ്റ് വഴി എളുപ്പത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ് മൂന്നാമതായി നമ്മൾക്ക് അനുഭവവുമായി മുന്നോട്ടുപോകാം എന്തുകൊണ്ടെന്നാൽ ലേണിങ് ബൈ ഡീഫോൾട്ട് എന്നത് സ്ഥിരതയുള്ള ഒരു മാറ്റമാണ് അപ്പോൾ താരതമ്യേന സ്ഥായിയായുള്ള മാറ്റം എന്തിലേക്കാണ് നയിക്കുന്നത് അത് നിങ്ങളെ നയിക്കുന്നത് സമാനമായ സന്ദർഭങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ രണ്ടാമതായി വന്നാൽ അല്ലെങ്കിൽ 'n' തവണ നിങ്ങൾ മുൻപുണ്ടായ അനുഭവത്തിന് വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ രണ്ട് സന്ദർഭങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിക്കും കഴിഞ്ഞതവണ ഇതായിരുന്നു ഉചിതമായ പ്രതികരണം അതിനാൽ ഇത്തവണയും ഇതായിരിക്കും ഉചിതമായ പ്രതികരണമെന്ന് ഒരുദാഹരണം എടുത്താൽ അധ്യാപകൻ ക്ലാസിലേക്ക് കടന്നു വരുന്നു അധ്യാപകൻ കടന്നുവരുമ്പോൾ കുട്ടികൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുകയും ഗുഡ് മോർണിംഗ് സർ ഗുഡ്മോർണിംഗ് മാം good morning maam എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എല്ലായിപ്പോഴും നിങ്ങൾ ഈ പെരുമാറ്റം ആവർത്തിക്കുന്നു ഇതെന്തുകൊണ്ടെന്നാൽ ഇവിടെ സന്ദർഭത്തിൽ ഒരു സിമിലാരിറ്റി ഉണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളൊരു ക്ലാസ്മുറിയുടെ സജ്ജീകരണത്തിലാണുള്ളത് ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു പീരീഡ് കഴിയുകയും അടുത്ത അധ്യാപകൻ മുറിയിലേക്ക് വരികയും ചെയ്യുമെന്ന് ആയതിനാൽ പീരീഡുകൾ മാറിയാലും തീയതി മാറിയാലും അധ്യാപകർ മാറിയാലും പക്ഷേ പെരുമാറ്റം അതേപോലെതന്നെ തുടരുന്നു ഇത് അടിസ്ഥാനപരമായും നിയന്ത്രിക്കപ്പെടുന്നത് സിമിലാരിറ്റിയാലാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക ലേണിങ് എന്നതുകൊണ്ട് അടിസ്ഥാനപരമായും അർത്ഥമാക്കുന്നത് അസോസിയേഷൻറെ രൂപീകരണമാണ് അസോസിയേഷൻ പ്രധാനമായും നിയന്ത്രിക്കപ്പെടുന്നത് 3 ഘടകങ്ങളാലാണ് കോണ്ടിഗ്വിറ്റി കോൺട്രാസ്റ് കൂടാതെ സിമിലാരിറ്റി ഇപ്പോൾ നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ട വിവിധ സിദ്ധാന്തങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും ലേണിങ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പുകളായി സിദ്ധാന്തങ്ങളെ വിഭജിക്കാം ബിഹേവിയറൽ സിദ്ധാന്തങ്ങളും കോഗ്നിറ്റീവ് സിദ്ധാന്തങ്ങളും ഇപ്പോൾ അടിസ്ഥാനപരമായും ബിഹേവിയറൽ സിദ്ധാന്തങ്ങൾ ലേണിങ് നടക്കുന്നത് ബാഹ്യമായ സ്റ്റിമുലൈയോടുള്ള വീക്ഷിക്കാവുന്ന പ്രതികരണങ്ങളുടെ ഫലമായാണ് എന്നുള്ള അനുമാനത്തെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അതിനാൽ ഇത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നും അറിയപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ പെരുമാറ്റം നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിൻറെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഈ കാലിബ്രേഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ രൂപീകരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ സിദ്ധാന്തങ്ങളുടെ കൂട്ടം കോഗ്നിറ്റീവ് തിയറീസ് എന്ന് വിളിക്കപ്പെടുന്നു ഇപ്പോൾ കോഗ്നിറ്റീവ് തിയറീസ് അടിസ്ഥാനപരമായും ലേണിങ് എന്നത് വിവരങ്ങളുടെ മാനസികമായ വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളതെന്നു പറയുന്നു ഇത് മിക്കപ്പോഴും ഒരു പ്രശ്നമുള്ള സന്ദർഭത്തോടുള്ള പ്രതികരണമാണ് അപ്പോൾ നിങ്ങൾ പ്രശ്നമുള്ള ഒരു സന്ദർഭത്തിലാണ് ഉള്ളതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന പരിഹാരത്തിൻറെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പിന്നോട്ടു നോക്കുകയും നടന്ന വിവരവിശകലനം പരിശോധിക്കുകയും ചെയ്യുന്നു വിവരങ്ങളുടെ വിശകലനത്തിന് അടിസ്ഥാനപരമായും നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് എന്നിവ ആവശ്യമായി വരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവയ്ക്കിടയിൽ ഒരു പ്രോസസ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു ഈ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത് അതാണ് നിങ്ങളെ ഈ സന്ദർഭത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാനായി സഹായിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടു കൂട്ടം സിദ്ധാന്തങ്ങളെ പറ്റി ചർച്ച ചെയ്തു ബിഹേവിയറൽ സിദ്ധാന്തങ്ങളും കോഗ്നിറ്റീവ് സിദ്ധാന്തങ്ങളും നമ്മൾക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി നോക്കാം ഇപ്പോൾ മൃഗങ്ങളെ മനുഷ്യർ പരിശീലിപ്പിക്കുകയും ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ നോക്കുകയാണ് മൃഗങ്ങളുടെ ഉദാഹരണം ഞാൻ മനപ്പൂർവ്വം എടുക്കുന്നതാണ് ഇതിനു കാരണം അടുത്ത ലക്ചറിൽ നമ്മൾ ലേണിങ് എന്നതിനെ പറ്റിയുള്ള വിവിധ സിദ്ധാന്തങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും അവിടെ നമ്മൾ കാണുന്ന സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയവയാണ് അപ്പോൾ ഈ വീഡിയോകൾ കാണുക സൂചക പദങ്ങൾ ലേണിങ് സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയറൽ കോഗ്നിറ്റീവ്